ദുരിതമോചനത്തിന്റെയും പുനർനിർമ്മാണത്തിന്റെയും കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രാം സതീഷ് ടി റൂർക്കി യിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിങ് ലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കെനിയയിലെ താൽക്കാലിക ഷെൽട്ടർ പുനർനിർമാണത്തെ കുറിച്ചാണ് ഇന്നത്തെ ലെക്ചർ ഡൈഫെഡ് ഓബ്റെയുടെ ഒരു പ്രധാന സംഭാവനയിൽ നിന്ന് ലഭിച്ചതാണ് അത് ബിൽഡ് ബാക്ക് ബെറ്റർ വോളിയമിലെ ഒമ്പതാം അദ്ധ്യായം ആണ് കാമില്ലോ ബോനോയ്ക്കൊപ്പം മൈക്കൽ ലിയോൺ ഉം തിയോ ശിൽഡർമാൻ ഉം ഇത് എഡിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇതിൽ പറയുന്നത് പങ്കാളിത്ത പുനർനിർമ്മാണത്തിന് താൽക്കാലിക ഷെൽട്ടർ സംഭാവന ചെയ്യുന്നതിനെ കുറിച്ചാണ് അതാണ് പങ്കാളിത്തവും തല്ക്കാലിക ട്രാൻസിഷൻ ഷെൽട്ടറും തമ്മിലുള്ള ബന്ധം അത് എങ്ങനെ യഥാർത്ഥത്തിൽ സ്ഥിരമായ പ്രക്രിയയിലേക്ക് മാറും കെനിയയുടെ അവസ്ഥയുടെ പശ്ചാത്തലം അത് ഒരു പ്രകൃതി ദുരന്തം കൊണ്ടല്ല മനുഷ്യ നിർമ്മിത സാഹചര്യങ്ങൾ കൊണ്ടാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ അക്രമം നിങ്ങൾ പ്രകൃതി ദുരന്ത പ്രതിഭാസങ്ങൾ അഥവാ അപകട പ്രതിഭാസങ്ങൾ നോക്കിയാൽഅപകട സാധ്യത ഉള്ള രേഖയിൽ നിന്ന് പോലും അഥവാ CRED റിപ്പോർട്ടിലും പറയുന്നത് 75 to 80 നേക്കാളും കൂടുതൽ ദുരന്തങ്ങൾ രാഷ്ട്രീയ അക്രമം കാരണമാണ് എന്നാണ് അതിനാൽ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് രാഷ്ട്രീയ അക്രമത്തിന്റെ അനന്തരഫലങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഷെൽട്ടർ വ്യവസ്ഥയുടെ കാര്യത്തിൽഅത് എങ്ങനെ രൂപവൽക്കരിക്കും ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്ന നിലയിൽ അത് എങ്ങനെ നടത്തും ദേശിയ തലത്തിൽ അതിനെ എങ്ങനെ ഉയർത്തി കൊണ്ട് വരും എന്ത് തരത്തിലുള്ള പ്രതികരണങ്ങൾ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക 2007 ലും 2008 ലും ഡിസംബർ 272007 ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മുമ്പത്തെ പ്രസിഡന്റ് ആയ മുവൈ കിബാക്കി വിജയി ആയി പ്രഖ്യാപിച്ചതിന് ശേഷം അവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഉള്ള വിവിധ വംശീയ വിഭാഗങ്ങൾക്കൊപ്പം വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായി യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് കോഓർഡിനേഷൻ ഓഫ് ഹ്യുമാനിറ്റെറിയൻ ആഫെഴ്സിന്റെ റിപോർട്ടുകൾ അനുസരിച്ചു 1200 ൽ പരം ആൾക്കാർ മരിച്ചു എന്നാണ് കണക്ക് 5 ലക്ഷം ആൾക്കാർ കുടിയിറക്കപ്പെട്ടു ഈ കലാപം മൂന്ന് തരത്തിൽ ഉണ്ടായി ആദ്യം കടകളും വാണിജ്യ സ്ഥാപനങ്ങളും വീടുകളും കത്തിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു എന്നിട്ട് അവർ സിറ്റിയിലേക്ക് വന്ന് നഗരത്തിലെ എല്ലാം അത് പൊതുസ്വത്ത് വാണിജ്യ സ്വത്ത് എന്ന വ്യത്യാസം ഇല്ലാതെ നശിപ്പിക്കാൻ തുടങ്ങി ഇത് ഒരു തരത്തിൽ ഉള്ള ആക്രമണം രണ്ടാമത്തേത് റിഫട് വാല്ലിയിലെ ചെറുകിട കർഷകർക്കും ഭൂവുടമകൾക്കും നേരെ പ്രതിപക്ഷ പിന്തുണക്കാർ നടത്തിയ ആക്രമണമാണ് സർക്കാർ അനുഭാവികൾ ആയി കണക്കാക്കി അവരെ അവിടെ നിന്ന് ഓടിക്കാനുള്ള ലക്ഷ്യത്തോടുകൂടി ഉള്ള ആക്രമണമായിരുന്നു അത് അങ്ങനെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ജനങ്ങളെ അവരുടെ നാട്ടിൽ നിന്നും ആട്ടിയോടിക്കാൻ ശ്രമിച്ചത് മൂന്നാമത്തേത് പ്രധാനമായും കുടിയേറ്റ തൊഴിലാളികളെ ലക്ഷ്യമിട്ടുള്ള അക്രമത്തിന്റെ മാതൃകയിലായിരുന്നു പ്രതിപക്ഷ അനുഭാവികളുടെ ഭാഗമാണ് ഇവർ എന്ന് ജനങ്ങൾ സംശയിച്ചിരുന്നു ഇങ്ങനെയാണ് മൂന്നു തരത്തിൽ ഉണ്ടായ ഇരകളെ വിശകലനം ചെയ്തത് ഇത് പ്രധാനമായും ബാധിച്ചത് റിഫട് വാല്ലിയിൽ ആണ് കെനിയയിലെ 8 പ്രാവിശ്യകളിൽ 5 എണ്ണത്തേയും സ്ഥാനചലനം ബാധിച്ചു കെനിയയിൽ 8 പ്രവിശ്യകൾ ആണുള്ളത് ഇവ റിഫ്റ്റ് വാല്ലി പ്രവിശ്യ എന്ന് പരിഗണിക്കപ്പെടുന്നു പ്രത്യേകിച്ച് നക്കുറു ട്രാൻസ് ന്സോയിയ ഉആസിൻ ഗിശു എന്നീ ജില്ലകളിൽ അങ്ങനെ ഇത്തരത്തിൽ ഉള്ള വിമത ഗ്രൂപ്പുകൾ ആളുകളെ നിർബന്ധിക്കുകയും സ്വത്തുക്കൾ നശിപ്പിക്കുകയുംആളുകളെ ആക്രമിക്കുകയും ചെയ്തു അതിനാൽ ഇത് വലിയ സാമൂഹിക നാശത്തിനു കാരണമായി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വ്യക്തമായും എന്ത് തരം പ്രതികരണങ്ങൾ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ എന്തായിരിക്കും ഇത്തരത്തിൽ ഉള്ള ആഘാതങ്ങളെയും ദുരിതങ്ങളെയും ആളുകൾ എങ്ങനെ നേരിടുന്നു അവരിൽ ചിലർ ആതിഥേയ വീടുകളിലേക്ക് താമസം മാറി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറിപ്പാർത്ത വർ അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോയി പോലീസ് സ്റ്റേഷനുകളിലും പള്ളികളിലും സ്വതസിദ്ധമായ ക്യാമ്പുകൾ സ്ഥാപിച്ചു കാരണം മതപരമായ കെട്ടിടങ്ങൾ സ്കൂളുകൾ പോലീസ് സ്റ്റേഷനുകൾ ഇവയൊക്കെ ആയിരുന്നു അവർക്ക് സ്വയം പരിരക്ഷിക്കാൻ കഴിയുന്ന ചില സ്ഥലങ്ങൾ അവർക്ക് കുറഞ്ഞത് ചില വംശീയ വിഭാഗങ്ങളെ എങ്കിലും പോലീസ് സ്റ്റേഷന്റെയോ മത ഭരണത്തിന്റെയോ സംരക്ഷണം ഉപയോഗിച്ച് സംരക്ഷിക്കാൻ കഴിയും അങ്ങനെയാണ് അവർ ക്യാമ്പുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയത് പലരും നയാൻസയിലും പശ്ചിമ മധ്യ പ്രാവിശ്യകളിൽ ഉള്ള അവരുടെ തറവാട്ടിലേക്ക് പോവാൻ ശ്രമിച്ചു അങ്ങനെ അവർ അവരുടെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ തറവാട്ടിലേക്ക് പോയി അങ്ങനെ ആ തരത്തിൽ അവർക്ക് കുറച്ചുനാളത്തേക്ക് എങ്കിലും അവരെതന്നെ പരിരക്ഷിക്കാൻ കഴിഞ്ഞു ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വലിയ സർക്കിളുകളെ കുറിച്ചാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം മുപ്പതിനായിരത്തിൽ കൂടുതൽ ആളുകൾ അഭ്യന്തര കുടിയൊഴിക്കപ്പെട്ടുഈ ഇടത്തരം വലുപ്പത്തിലുള്ള സർക്കിൾ കാണിക്കുന്നത് 10000 നും 30000 നും ഇടയിൽ ഉള്ളതാണ് താഴെയുള്ള ചെറുത് 1000 ൽ കുറവുള്ളതാണ് ഇത് മുഴുവൻ IDP ൽ ആണ് 8 പ്രവിശ്യകളിലെ 5 എണ്ണത്തിലും ഈ കുടിയിറക്കപ്പെടൽ ബാധിച്ചു സംഭവിച്ച മുഴുവൻ പ്രക്രിയയിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം 2009 ൽ 3 ലക്ഷം 13921 ജനങ്ങൾ ഉണ്ട് അവർ ആന്തരികമായി കുടിയിറക്കപ്പെട്ട വ്യക്തികൾ ആണ്എന്നാൽ ബാക്കിയുള്ളവരേ 296 വിവിധ ക്യാമ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് ഈ ക്യാമ്പുകൾ താൽക്കാലിക ഷെൽട്ടറുകൾ ആണ് ഇത് പിഗ്മി പോലത്തെ ഷെൽട്ടറുകൾ ആയാലും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ടാർപോളിൻ ഷീറ്റുകൾ കൊണ്ടുള്ള കോണിക്കൽ ഷെൽട്ടറുകൾ ആയാലും വലിയ ഗ്രൂപ്പുകളായി ആൾക്കാരെ അതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നു ആ ക്യാമ്പുകളിൽ ചില അടിസ്ഥാന സ്വകാര്യങ്ങൾ ഇങ്ങനെ ക്ലസ്റ്ററുകൾ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ഗവൺമെന്റ് എങ്ങനെയാണ് സാഹചര്യത്തെ നേരിട്ടത് കെനിയ ഗവൺമെന്റിന്റെ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് ഫോർ സ്പെഷ്യൽ പ്രോഗ്രാംഇത് MoSSP എന്നാണ് അറിയപ്പെടുന്നത് ഇതിന്റെ ദൌത്യം കെനിയയിൽ അപകടസാധ്യത കുറക്കുന്നതിനുള്ള നടപടികളുടെയും ദുരന്തനിവാരണത്തിന്റെയും വികസനത്തിന് നേതൃത്വം നൽകുക എന്നതാണ് ഇത് IDPന്റെ കാര്യങ്ങളുംഅവരുടെ പുനരധിവാസ പ്രക്രിയകളും ശ്രദ്ധിച്ചു UNHCR യും കെനിയൻ ഗവൺമെന്റ് ഏജൻസി ആയ KRCS നെ പിന്തുണച്ചു പുനരധിവാസ പ്രക്രിയകൾ നടത്താൻ വേണ്ടി രൂപീകരിച്ചതാണിത് ഇത് ചിലതരത്തിൽ പിന്തുണ നൽകി അതിനാൽ പുനരധിവാസ പ്രക്രിയ കൈകാര്യം ചെയ്യാൻ അവർ സ്വയം പര്യാപ്തരാണെന്ന് കൊറിയൻ സർക്കാർ വിചാരിച്ചു എങ്കിലും UNHCR ൽ നിന്നും കുറച്ചൊക്കെ പിന്തുണ കിട്ടിയിരുന്നു എന്നാൽ ഗവൺമെന്റ് സജ്ജീകരണത്തിന്റെ ശ്രേണിയുടെ അടിസ്ഥാനത്തിൽപ്രവിശ്യാ ഭരണത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും ഒരു മന്ത്രി ഉണ്ട് ആഭ്യന്തര സുരക്ഷ വശങ്ങൾ അവർ പരിശോധിക്കുന്നു മന്ത്രിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു പ്രവർത്തിക്കാൻ പ്രൊവിൻഷ്യൽ കമ്മീഷണർമാർ ഉണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ 8 പ്രവിശ്യകൾ ഉണ്ട് അതിനാൽ ഈ ഓരോ പ്രവിശ്യയും ഓരോ പ്രോവിൻഷ്യൽ കമ്മീഷണറുടെനേതൃത്വത്തിലാണ് ജില്ലകളുടെ കാര്യത്തിലും ഇത് പ്രതിഫലിക്കുന്നു ഓരോ പ്രവിശ്യയും വിവിധ ജില്ലകളായി വിഭജിച്ചിരിക്കുന്നു ഓരോ ജില്ലയും ജില്ലാ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് അതേസമയം ഓരോ ജില്ലയും വീണ്ടും ഉപവിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു പക്ഷെ ഇപ്പോൾ ഈ IDP പ്രക്രിയയിൽ ആഭ്യന്തര കുടിയിറക്കപ്പെട്ട ആളുകൾ ആദ്യം ഇവർ ആരൊക്കെയാണെന്ന് എങ്ങനെ തിരിച്ചറിയും ക്യാമ്പുകളിലോ ട്രാൻസിഷൻ സെന്ററുകളിലോ താമസിപ്പിക്കാൻ ആവശ്യമായ സുരക്ഷിതത്വം നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് നമുക്ക് അത് എങ്ങനെ പ്രൊഫൈൽ ചെയ്യാം നാശനഷ്ടം എങ്ങനെ വിലയിരുത്താം പ്രൊവിൻഷ്യൽ കമ്മീഷണറുടെ ചുമതലകളുടെ ഭാഗമായി ഇത് ജില്ലാ തലത്തിലും ചീഫ് തലത്തിലുമുള്ള എല്ലാ ഉപ ഗ്രൂപ്പുകളുമായും ഏകോപിപ്പിച്ചു നടത്തുന്നു അതിനാൽ അവർക്ക് ഇവിടെ ഒരു തരം വെർട്ടിക്കൽ കോഓർഡിനേഷൻ കാണാൻ കഴിയും IDP ക്യാമ്പുകൾ സ്ഥാപിക്കുന്നതിലുംഗ്രാമതല സമാദാനവുംഅനുരഞ്ജന സമിതിയും സജീവമാക്കുന്നതിലും KRCS നും മാനുഷികപ്രവർത്തകാർക്കും പിന്തുണ നൽകുന്നു ഇതൊക്കെയാണ് എല്ലാതരത്തിലും ഉള്ള ബൂറോക്രാറ്റിക് സിസ്റ്റം ഓരോ ഗ്രൂപ്പും എങ്ങനെ ജീവിക്കുന്നു അവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നു ഇത്തരത്തിലുള്ള ഐ ഡി പി സജ്ജീകാരണത്തിന് അവർക്ക് എങ്ങനെ പിന്തുണ നൽകാൻ സാധിക്കും തുടക്കത്തിൽ ഗവൺമെന്റ് നൽകിയ നഷ്ടപരിഹാര പാക്കേജ് ഉണ്ടായിരുന്നു അത് ഏകദേശം 10000 കെനിയൻ തുക ആയിരുന്നു അതായത് ഏകദേശം ഓരോ IDP വീട്ടുകാർക്കും 100 യൂറോ പിന്നെ തകർന്ന വീടുള്ള ഓരോ വീട്ടുകാർക്കും 25000 അധികമായി അതായത് 250യൂറോ100 യൂറോഈ തരത്തിൽ ആയിരുന്നു നഷ്ടപരിഹാര പാക്കേജ് എന്നാൽ ഇത് വളരെ വിജയകരവും വ്യത്യസ്തവും ആയിരുന്നില്ല ഈ പ്രത്യേക പ്രക്രിയയ്ക്ക് ഉത്തരവാദിത്വവും സ്ഥിരതയും ഇല്ലായിരുന്നു എന്നാണ് മൂല്യനിർണയ റിപ്പോർട്ടുകൾ പറയുന്നത് ഈ IDPs ന് 1000025000 കെനിയൻ കറൻസി ഉള്ള സ്ഥലത്ത്ഇവിടെ അവർ ഓപ്പറേഷൻ റൂഡി നയുമ്പാനി എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ തുടങ്ങി അതായത് എങ്ങനെ വീട്ടിലേക്ക് മടങ്ങും കാരണം അവർക്ക് എല്ലാ സൌകര്യങ്ങളും നൽകാൻ നമുക്ക് കഴിയില്ല എത്രനാൾ അങ്ങനെ കൊടുക്കാൻ കഴിയും അതുകൊണ്ടാണ് ട്രാൻസിഷൻ ക്യാമ്പുകൾ തുടക്കത്തിൽ നൽകിയത് പക്ഷെ പിന്നെ എങ്ങനെ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം കുറക്കാൻ സാധിക്കും എങ്ങനെ നമുക്ക് അവരെ ഈ പ്രക്രിയയിൽ നിന്നും സ്വതന്ത്രമാക്കാം ഇവിടെയാണ് ഓപ്പറേഷൻ റൂഡി നയുമ്പാനി വീട്ടിലേക്കുള്ള മടക്കം നിലവിൽ വന്നത് ഇത് താൽക്കാലിക ക്യാമ്പുകൾ അടച്ചുപൂട്ടാനുള്ള നടപടി വേഗത്തിലാക്കി ഇവിടെയാണ് പലരും അവശേഷിക്കുന്നത് അവർ സ്വയം 50 4000 കുടുംബങ്ങൾ ഉൾപ്പെടുന്ന ഒരു സെൽഫ് ഹെല്പ് ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചു ഭൂമി ലഭിക്കുന്നതിനായി ഓരോ ഗ്രൂപ്പ് അംഗവും ഗവണ്മെന്റ് കൊടുത്ത പണം ഒരു കമ്മ്യൂണൽ ഫണ്ടിലേക്ക്ഇട്ടു എന്നിട്ട് സ്ഥിരതാമസത്തിനായി ഗ്രാമത്തിൽ പ്ലോട്ടുകൾ വാങ്ങിച്ചു അവർ അവരുടെ ടെന്റുകളുമായി അങ്ങോട്ടേക്ക് മാറി അതായത് അവർക്ക് കിട്ടിയ പണം എത്രയായാലും അവരിൽ ചിലർ ഗ്രൂപ്പുകൾ രൂപീകരിക്കാൻ ശ്രമിച്ചു എന്നിട്ട് അവർ കുറച്ചു പണം ഇട്ട് ഗ്രാമപ്രദേശത്തു കുറച്ചു പ്ലോട്ടുകൾ വാങ്ങി അതിനാൽ അവർക്ക് അവരുടെ ടെന്റുകളുമായി മാറാൻ സാധിച്ചു അങ്ങനെ ഉള്ള ഒരു ഗ്രൂപ്പ് ആണ് 4000 വീട്ടുകാർ റെജിസ്റ്റർഡ് മെമ്പർഷിപ് എടുത്ത നയാൻഡറുഅ ഏകദേശം 50 ഏക്കർ ഭൂമിയാണ് അവർ സ്വന്തമാക്കിയത് അവർ അവിടെ താൽക്കാലിക ശൌചാലയങ്ങൾ ഉണ്ടാക്കി അടുത്തുള്ള നദിയിൽ നിന്ന് വെള്ളം എടുത്തു അടിസ്ഥാന സേവനങ്ങൾ ആണ് ഏറ്റവും പ്രധാന ദൌത്യം അവിടെ ജീവിക്കാൻ വേണ്ടി അവരെ സംബന്ധിച്ചെടുത്തോളം അത് വെറുമൊരു ഷെൽട്ടർ അല്ലസർവീസ് ആസ്പെക്ട്കൂടി ആയിരിക്കണം ഈ പ്രത്യേക ഘട്ടത്തിൽ കാലാവധി ഒരു വലിയ പ്രശ്നം ആയി മാറി പിന്നെ ഗുണഭോക്താക്കളായ ദുർബലരായ ആളുകളെ പ്രൊഫൈൽ ചെയ്യുന്നതും ഒരു പ്രധാന ദൌത്യമാണ് അതുവഴി ഗവണ്മെന്റ് കുറക്കാൻ ശ്രമിക്കുന്നുഞങ്ങൾ അവരുടെ സപ്പോർട്ട് കുറക്കാൻ ആലോചിച്ചു അങ്ങനെ അവർക്ക് പതുക്കെ അനാശ്രയരാവാം അതേസമയം ജില്ലാതലത്തിൽ ഉള്ള പ്ലാനിങ് ഡിപ്പാർട്മെന്റുകൾ ലാൻഡ് സബ്ഡിവിഷന്റെ കാര്യത്തിലും കാലാവധി പ്രശ്നങ്ങളുടെ കാര്യത്തിലും ചില ഗ്രൂപ്പുകളെ സഹായിച്ചിരുന്നു മാത്രമല്ല ബോർഹോൾസിന്റെ കാര്യത്തിൽ ജില്ലാ വാട്ടർ അതോറിറ്റികളും അവരെ സഹായിച്ചു ഇനി അവർക്കായി ചില സേവന അടിസ്ഥാന സൌകര്യങ്ങൾ സജ്ജീകരിക്കണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുംIDPഅത് യഥാർത്ഥത്തിൽ എത്ര പുരോഗമിച്ചുപിന്നീട് ആഭ്യന്തര കുടിയിറക്കപ്പെട്ട ആളുകളുടെ എണ്ണം കുറഞ്ഞു അവ എങ്ങനെ ക്രമേണ കുറഞ്ഞു ഭവന പുനർനിർമ്മാണത്തിന്റെ കാര്യത്തിൽ കാരണം ഈ ട്രാൻസിഷണൽ ഷെൽട്ടർ ഇത് വെറുമൊരു മാനദണ്ഡം അല്ല ഇത് നിങ്ങളുടെ ഉൽപ്പന്നത്തിലേക്ക് ചുരുക്കിയിട്ടില്ലഇതൊരു ക്രിയ ആണ് ഇതൊരു പ്രക്രിയ ആണ്പുറത്തു നിന്നുള്ള ഒരു സഹായിയുടെ ആശ്രിതത്വത്തിൽ നിന്ന് മാറാൻ കുടുംബങ്ങളെ പ്രാപ്തമാക്കുന്നതിനുള്ള ഒരു ഉത്തേജകമാണിത്ഉടമകൾക്ക് ട്രാൻസിഷണൽ ഷെൽട്ടർനൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഭൂമി തിരിച്ചു കൊടുക്കേണ്ടതാണ് അവിടെയാണ് നിങ്ങൾ സാഹചര്യത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കേണ്ടത് അങ്ങനെ അവർക്ക് സ്വതന്ത്രരാവാൻ കഴിയും ട്രാൻസിഷണൽ ഷെൽട്ടറിന്റെ നിർവചനം ഇങ്ങനെയാണ് ട്രാൻസിഷണൽ ഷെൽട്ടർ താമസയോഗ്യമായ കവർ ചെയ്ത ലിവിങ് സ്പേസും സുരക്ഷിതത്വവും ആരോഗ്യകരമായ ജീവിത സാഹചര്യവും അവിടെ താമസിക്കുന്നവർക്ക് സ്വകാര്യതയും അന്തസ്സുംഒരു സംഘട്ടനമോ പ്രകൃതിദുരന്തമോ ഉണ്ടായത് തൊട്ട് ഒരു ഡ്യൂറബിൾ ഷെൽട്ടറിനുള്ള പരിഹാരം ആവുന്നത് വരെയുള്ള കാലയളവിൽ ആളുകൾക്ക് നൽകുന്നു അതിനാൽ അവിടെ സമയത്തിന്റെ ഒരു ഘടകവും ഉണ്ട് അതായത് ദുരന്തം നടക്കുന്ന സമയം തൊട്ട് സ്ഥിര താമസ സൌകര്യം ആവുന്നത് വരെയുള്ള സമയം അതിനാൽ ഈ പ്രത്യേക ഘട്ടത്തിൽഅവരെ കുറച്ചു മാന്യമായി സേവിക്കേണ്ടതുണ്ട് കുറച്ചു അടിസ്ഥാന സൌകര്യങ്ങൾ കുറച്ച് അടിസ്ഥാന സുരക്ഷിതത്വം എന്നിവ ഉറപ്പ് നൽകേണ്ടതുണ്ട് ഒരാൾക്ക് ടാർഗറ്റ് ഗ്രൂപ്പുകളെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും അതിന് വേണ്ടി അവർ ചെയ്തത് എന്തെന്നാൽ അവർ 3 ടാർഗറ്റ് ഗ്രൂപ്പുകളായിതരം തിരിച്ചു ഒന്നാമത്തേത് അവരുടെ യഥാർത്ഥ താമസ സ്ഥലത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർരാജ്യത്ത് മറ്റെവിടെയെങ്കിലും താമസം മാറ്റാൻ ആഗ്രഹിക്കുന്നവർനിലവിലെ സ്ഥലത്ത് തന്നെ സമന്വയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ 3 ഗ്രൂപ്പുകൾ എങ്ങനെ അവർ സമന്വയിപ്പിക്കും ഭൂവുടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ ഈ ഗ്രൂപ്പുകളെ വീണ്ടും ഉപ വിഭജിചിരിക്കുന്നു സ്വന്തമായി ഭൂമി ഉള്ളവർ ഭൂമി ഇല്ലാത്തവർവാടകക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ അഥവാ ഭൂമി സ്വന്തമായി വാങ്ങിക്കാൻ ഉദ്ദേശിക്കാത്തവർ ഇങ്ങനെ പല ഗ്രൂപ്പുകളാക്കി ഐറിഷ് NGOഅവർ UNHCR യുമായി ഏകോപിപ്പിച്ചു ഐറിഷ് NGO യ്ക്കൊപ്പം ഒരു ടാർഗറ്റ് വർക്കിംഗ് ഗ്രൂപ്പുംഷെൽട്ടർ വർക്കിംഗ് ഗ്രൂപ്പുംഉണ്ടാക്കി അങ്ങനെ ഒരു ജോയിന്റ് ഷെൽട്ടർ തന്ത്രം അവർ വികസിച്ചെടുത്തു ഈ പ്രത്യേക തന്ത്രം ചില പ്രധാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതും പ്രക്രിയയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതിൽ ഒന്ന് ഏറ്റവും ദുർബലരായവർക്ക് പ്രവേശനം ഉറപ്പാക്കുന്ന തരത്തിൽ ഉള്ള ടാർഗറ്റ് ഗ്രൂപ്പ് സെലെക്ഷൻ ആണ് അത് സ്ത്രീ നയിക്കുന്ന കുടുംബം ആയാലുംപ്രായമായവരുടെ ഗ്രൂപ്പ് ആയാലും അഥവാ വീടുകൾ നഷ്ടപ്പെട്ടവരായാലും അതിനാൽ സഹായക ഏജൻസികളുടെ ഷെൽട്ടർ അനുഭവത്തിന്റെ വൈവിധ്യവുംഡിസൈനിലും നിർമ്മാണത്തിലും ഉള്ള അറിവും ഷെൽട്ടർ സൊല്യൂഷനുകൾക്കിടയിലെ അഭിപ്രായ വ്യത്യാസം വരുന്ന അപര്യാപ്തമായ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സഹായകമാവാം മാത്രമല്ല ട്രാൻസിഷണൽ ഷെൽട്ടറും സ്ഥിരമായ വ്യവസ്ഥയും ഡിസൈനും തമ്മിൽ ഒരു ഡിസ്ക്കണക്ഷൻ ഉണ്ട് കാരണം ഇത് എന്തായി മാറുമെന്ന് ആർക്കും നിശ്ചയം ഇല്ല അതിനാൽ ഡ്യൂറബിൾ ഷെൽട്ടർ ന്റെ അവസാനം എങ്ങനെ ആയിരിക്കും എന്നത് അജ്ഞാതമായിരുന്നു നിങ്ങൾ ഷെൽട്ടർ കൊടുക്കുന്നു പക്ഷേ എത്രനാൾ അവർ അവിടെ താമസിക്കാൻ പോകുന്നു ഇത് എത്ര നാൾ നിലനിൽക്കും ആളുകൾ എങ്ങനെ പ്രതികരിക്കും ഇതൊക്കെ അനിശ്ചിതത്വത്തിൽ ആണ് ഉപജീവന സഹായം കൂടി പാർപ്പിട വ്യവസ്ഥയുമായി സംയോജിപ്പിക്കേണ്ടതും ആവശ്യമാണ് കാരണം വെറുതെ അവർക്ക് താമസിക്കാൻ വേണ്ടി മാത്രമല്ല വീടുകൾ നൽകുന്നത് പിന്നീട് എങ്ങനെ അവർക്ക് ഉപജീവനമാർഗം കണ്ടെത്താം എങ്ങനെ അവർക്ക് കൃഷിക്കുള്ള സൌകര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അക്കൂട്ടത്തിൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ എങ്ങനെ അവർക്ക് ജോലി ലഭിക്കും ഇവയാണ് അഭിസംബോധന ചെയ്യേണ്ട ഉപജീവന വശങ്ങൾ വീട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിൽടാർഗറ്റ് ഗ്രൂപ്പ് target group1 നെ സഹായിക്കാൻ താഴെ പറയുന്ന മുൻവ്യവസ്ഥകൾ പ്രയോഗിച്ചു തിരിച്ചു പോകുന്ന സ്ഥലത്തെ സുരക്ഷ ഇതാണ് ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതും കാരണം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കാരണം അവർ ഇതിനകം തന്നെ ഒരുപാട് ആഘാതങ്ങൾക്ക് വിധേയരായിട്ടുണ്ട് അതിനാൽ ആദ്യം നമ്മൾ ഉറപ്പാക്കേണ്ടത് അവിടുത്തെ സുരക്ഷ തന്നെയാണ് ഹൌസ്ഹോൾഡ് രജിസ്ട്രേഷൻ അവിടെ എല്ലാ ഗുണഭോക്താക്കളും എല്ലാരും രജിസ്റ്റർ ചെയ്യണം മടങ്ങിവരാനുള്ള വീട്ടുകാരുടെ സന്നദ്ധത എന്തായാലും അവർ സ്വമേധയാ തിരിച്ചുവരുന്നു ഭൂമിയുടെ അഥവാ വീടിന്റെ ഉടമസ്ഥാവകാശത്തിന്റെ തെളിവുകൾ ജില്ലാതല കേഡസ്റ്ററുകളുടെകയ്യിൽ ഉണ്ടായിരിക്കും അതിനാൽ അവർ എന്തെങ്കിലും ലാൻഡ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ആ രീതിയിൽ ഹൌസ്ഹോൾഡ് സെലെക്ഷൻകാണാൻ കഴിഞ്ഞു പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്തെന്നാൽ ഈ തരത്തിലുള്ള വിഭാഗത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്താൻ കഴിയില്ല എല്ലാവരും ഭൂമി വാങ്ങിയിട്ട് ഉണ്ടാകില്ലഎല്ലാവർക്കും സ്വന്തമായി ഒരു നീക്കം നടത്താൻ കഴിയണം എന്നില്ല അതിനാൽ റിസോർസസിന്റെ കുറച്ചു സങ്കീർണ്ണമായ സാഹചര്യം ഉണ്ടാവും മുഴുവൻ സമൂഹത്തിനും സാമ്പത്തിക സാഹചര്യങ്ങൾ മതിയാവണമെന്നില്ല അതിനാൽ ഏറ്റവും ആവശ്യമുള്ള വീട്ടുകാർക്ക് മുൻഗണന കൊടുത്ത് തിരഞ്ഞെടുക്കേണ്ടതാണ് അവർ ഷെൽട്ടർ സഹായത്തിനു ഏറ്റവും യോഗ്യരായിരിക്കണം ഇനി ഷെൽട്ടറിന്റെ ഡിസൈൻകാരണം ഇവിടെയാണ് പല ദുരന്തങ്ങളിലും കുടിയിറക്കപ്പെട്ട സാഹചര്യങ്ങളിലും ഉടമയുടെ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി തന്നെ വാദിക്കപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് അവർ താൽക്കാലിക നിർമിതികൾ എങ്ങനെ സ്ഥിരമായ വീടായി നവീകരിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഷെൽട്ടറുകളുടെ സ്ഥലംമാറ്റം അഥവാ ഷെൽട്ടർ മെറ്റീരിയലുകൾ നല്ല രീതിയിൽ പുനരുപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വേർപെടുത്തുക കാരണം ഒരിക്കൽ നിങ്ങൾ താൽക്കാലിക ഷെൽട്ടറുകൾ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ മറ്റൊരു സ്ഥിരമായ ഷെൽട്ടറുകളുടെ പ്രൊജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ മെറ്റീരിയലുകൾ ക്ക് എന്ത് സംഭവിക്കും എങ്ങനെ അത് പുനരുപയോഗിക്കാൻ സാധിക്കും ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില പരിഗണനകൾ അവർ ചെയ്തത് എന്തെന്നാൽ ഒരു ഡിസൈൻ പ്രക്രിയ വികസിപ്പിക്കുമ്പോൾ റിഫ്ട് വാല്ലിയിലെ നിലവിലുള്ള ഷെൽട്ടർ ടൈപ്പോളിജികളിൽ വിശകലനം നടത്തി അടിസ്ഥാനപരമായി അവ ലളിതമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ടിമ്പർ തൂണുകൾ കൊണ്ടുള്ള വീടുകൾ ആണ് ഘടനാപരമായ തൂണുകളുള്ള ടിമ്പർ ഫ്രെയിംഘടനകൾ നിലത്തു കുഴിച്ചിട്ടതാണ് ഇത് പ്രാണികളുടെ ആക്രമണത്തിൽ നിന്നും അഴുകലിൽ നിന്നും രക്ഷനേടാൻ സാധാരണയായി സെഡാർ ഉപയോഗിക്കുന്നു നിലം കമ്പ്രെസ്സ് ചെയ്ത ഭൂമിയാണ് ചുമരുകൾ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ മേൽക്കൂരകൾ ടിമ്പർആണ് ചിലസമയം ഇരുമ്പ് ഷീറ്റുകൾ അല്ലെങ്കിൽ മേഞ്ഞത് ആയിരിക്കും ഇപ്പൊൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ചില പരമ്പരാഗത പാറ്റേർണുകൾ ആണ് അവർ ആ സ്ഥലത്തു ഒത്തുകൂടി എങ്ങനെ ആണ് അവർ ടിമ്പർ തൂണുകൾ കൊണ്ട് ആരംഭിക്കുന്നത് എന്നിട്ട് അവർ ഫ്രെയിംഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് കുറഞ്ഞ ചിലവിൽ ഒരു ചെറിയ വീട് ഉണ്ടാക്കുന്നത് അവർ ചില അടിസ്ഥാന തത്വങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് സഹായം ലഭിച്ച് രണ്ടു ദിവസത്തിനുള്ളിൽ ഷെൽട്ടർ നിർമ്മിച്ച് താമസിക്കാനുള്ള കഴിവാണ് ഒന്ന് അപ്പോൾ എത്ര പെട്ടെന്ന് ഒരാൾക്ക് നിർമ്മിക്കാൻ കഴിയും താൽക്കാലിക ഷെൽട്ടർ സ്ഥിരമായ വീടുകൾ ആക്കി ഉയർത്താനുള്ള കഴിവാണ് അടുത്തത് ഇത് ഒരു തരത്തിലുള്ള ട്രാൻസിഷൻ ഷെൽട്ടർആണ് ഇതെങ്ങനെ സ്ഥിരമായി ഷെൽട്ടർ ആയി മാറ്റി കൊണ്ടുവരാൻ കഴിയും കാരണം അവിടെയാണ് നമ്മൾ ശക്തമായ ഗുണനിലവാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഷെൽട്ടറുകൾ വേർപ്പെടുത്തി വേറൊരു സൈറ്റിലേക്ക് മാറ്റാനുള്ള കഴിവ് നമ്മൾ ചർച്ച ചെയ്ത മറ്റേ കാറ്റഗറിയിൽ അവർക്ക് റീലൊക്കേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുക അവർ ചില സ്ഥലങ്ങളിൽ ഒരു ഭൂമി കണ്ടെത്തി ഈ വീട് അങ്ങോട്ടേക്ക് മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ അത് പൊളിക്കാൻ സാധിക്കും എന്നിട്ട് അത് വീണ്ടും എങ്ങനെ ഫിക്സ് ചെയ്യും അതായത് ഷെൽട്ടർ വേർപെടുത്താനും സ്ഥിരമായ വീട് നിർമ്മാണത്തിന് വേണ്ടി അത് വീണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാനുമുള്ള കഴിവ് ചില ഘടകങ്ങൾ വീണ്ടും നമുക്ക് സ്ഥിരമായ ഷെൽട്ടർ പുനർ നിർമ്മാണത്തിന് ഉപയോഗിക്കാം അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിർദ്ദിഷ്ട ഉടമസ്ഥന്റെ താല്പര്യത്തിനും കൂടി പ്രാധാന്യം കൊടുക്കാനുള്ള കഴിവ് ഈ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങിയ ചില മാർഗ്ഗ ദർശനങ്ങൾ ഉണ്ടാക്കി മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ താഴെപ്പറയുന്ന കിറ്റ് തയ്യാറാക്കി ഒന്നാമത്തേത് 18 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ലിവിങ് സ്പേസ്വികസിപ്പിച്ചെടുത്തുഅതായത് 5 ആളുകൾക്ക് വരെ ഏകദേശം 36 മീറ്റർ അപ്പോൾ ഷെൽട്ടർ നേരിട്ട് ഗ്രൌണ്ടിൽ ഇറക്റ്റ് ആയി നിൽക്കും സ്ട്രക്ച്ചറിന് ചുറ്റും ശരിയായ ഡ്രൈനേജ്ഉപയോഗിച്ച് ആ നിലം ഉയർത്തും സ്ട്രക്ചറൽ ഫ്രെയിം തടി തൂണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേസമയം മേൽക്കൂരയിൽ കൊറഗേറ്റെഡ് ഗാൽവനൈസ്ഡ് ഇരുമ്പ് ഷീറ്റുകളും സ്ട്രക്ചറിലേക്ക് ആണിയും അടങ്ങിയിരിക്കും ഈർപ്പവും മറ്റ് കാര്യങ്ങളും കാരണം പിന്നീട് ഗുണഭോക്താക്കൾ പ്രാദേശികമായി ലഭിക്കുന്ന മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചുമരുകൾ പണിയുന്നു അതായത് കൊറഗേറ്റഡ് ഇരുമ്പ് ഷീറ്റുകൾമണ്ണ് വൈക്കോൽ ഇഷ്ടികകൾ തുടങ്ങിയവ അങ്ങനെ അടിസ്ഥാനപരമായി അവ സ്ട്രക്ചർ നൽകുന്നു ആളുകൾ അവർക്ക് സാധ്യമായ മെറ്റീരിയൽ കൊണ്ട് ഷെൽട്ടർ പണിയുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നത് GOAL നും UNHCR നുമുള്ള ഈ മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നവീകരിക്കാനുംപ്രോട്ടോടൈപ്പ് നിർമ്മിക്കാനും പ്രാദേശിക കരകൌശല വിദഗ്ദ്ധരെ നക്കുറു സ്ഥലത്ത് കൊണ്ട് വന്നു ഇതൊരു പൈലറ്റ് പ്രൊജക്റ്റ് ആണ് ഇതിന് വേണ്ടി അവർ ആളുകളുടെ അഭിപ്രായവും സ്വീകരിച്ചിട്ടുണ്ട് എങ്ങനെ ഇത് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും അതാണ് ഒരു തരത്തിൽ ഉള്ള രൂപം അവിടെ ഒരു ഷെൽട്ടർ പ്രോട്ടോടൈപ്പ് കാണാൻ സാധിക്കും അതിനൊരു ടിമ്പർ പോസ്റ്റ് ഉണ്ട് അതിന് ചുറ്റും പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടിയത് കാണാം എന്നിട്ട് ഈ കരകൌശല വിദഗ്ദ്ധർ ഡിസൈൻ മോഡിഫൈ ചെയ്യാൻ തുടങ്ങി തൂണുകളുടെ വലിപ്പം വളരെ ചെറുതും അപര്യാപ്തവും ആണ് റിഫ്റ്റ് വാല്ലിയിലെ പ്രാദേശിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരു ഹൌസിങ് ഫ്രെയിം നിർമ്മിച്ചു അങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ കമ്പോണെന്റ്സ് മുഴുവൻ ഭാരമേറിയതവുകയുംഷെൽട്ടറുകളുടെ ഗതാഗതക്ഷമത കുറയുകയും ചെയ്യുന്നു കാരണം ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുപോവാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുകയും മെറ്റീരിയലുകളുടെ പുനരുപയോഗത്തിൽ കൂടുതൽ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു പക്ഷേഇപ്പോഴുംനൽകിയിരിക്കുന്ന ഷെൽട്ടർ കൂടുതൽ നവീകരിക്കാനുള്ള സ്കോപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും അവരിൽ പലർക്കും അത് വളരെ ചെറുതായി തോന്നി പക്ഷേ ഈ പ്ലാസ്റ്റിക് ഷീറ്റിങ്ങിൽ ഒരു താൽക്കാലിക മതിൽ മെറ്റീരിയൽ ഉണ്ട് മനശാസ്ത്രപരമായി വ്യാഖ്യാനിച്ചപ്പോൾ അതു ഡ്യൂറബിൾ അല്ല എന്ന് പലർക്കും തോന്നി പക്ഷേ പല ഏജൻസികളും ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ഈ പദ്ധതി മുഴുവൻ പൂർത്തിയാക്കി അവിടെയാണ് ഗുണഭോക്താക്കൾ പ്ലാസ്റ്റിക് ഷീറ്റിങ് ഉപയോഗിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചത് പക്ഷേ ഈ പ്രോജക്ട് പുരോഗമിച്ചപ്പോൾസർവേയുടെ 86 ത്തിലും പറയുന്നത് മുൻപത്തെ വീടുകളേക്കാൾ വലുതാണ് ട്രാൻസിഷൻ ഷെൽട്ടറുകൾ എന്നാണ് ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ചില ക്രമീകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രോട്ടോടൈപ്പ് ഷെൽട്ടറിൽനിന്ന് ഒരു ബിൽ ഓഫ് ക്വാണ്ടിറ്റി ലഭിച്ചു അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഷെൽട്ടർ കിറ്റ് ഉണ്ടാക്കി നക്കുറു വെയർഹൌസിൽ ഏകദേശം 497 ഷെൽട്ടർ കിറ്റുകൾ ഓരോ കിറ്റിലും 18 സ്ക്വയർ മീറ്റർവീട് ഉണ്ട് അതിന് ഏകദേശം 385 ഡോളർ വില വരും അവർ ചെയ്തത് എന്തെന്നാൽ GOAL ഏജൻസി എല്ലാ മെറ്റീരിയലുകളും ലഭ്യമാകുന്ന എല്ലാ സെൻട്രൽ പോയിന്റുകളിലേക്കും ട്രക്ക് ചെയ്തു ഓരോ വിതരണത്തിലും ഏകദേശം 120 കിറ്റുകൾ വിതരണം ചെയ്തു പിന്നീട് കമ്മ്യൂണിറ്റി മെമ്പറുകൾ community members ട്രക്കിൽ നിന്നും സാധനങ്ങൾ ഇറക്കി ആ മെറ്റീരിയലുകൾ കിറ്റുകൾ ആയി വിഭജിച്ചു എന്നിട്ട് ഓരോ വീട്ടുകാരും ഡിസ്ട്രിബൂഷൻ പോയിന്റിൽ നിന്നും അവരവരുടെ വീടുകളിലേക്ക് ട്രാൻസ്പോർട്ടേഷൻഏർപ്പാടാക്കി അതായത് അടിസ്ഥാനപരമായി ഇത് ഒരു സെൻട്രൽ സ്പേസിൽ നിന്നാണ് പിന്നീട് അത് ഇന്റർമീഡിയേറ്റ് പോയിന്റുകളിലേക്ക് വിതരണം ചെയ്യാൻ തുടങ്ങി എന്നിട്ട് കമ്യൂണിറ്റി മെമ്പറുകൾ അവരവരുടെ പണിക്കാരെ കൊണ്ടോ അല്ലെങ്കിൽ കഴുതകൾട്രാക്ടറുകൾ അഥവാ പികപ്പുകൾ ഏർപ്പാടാക്കി കൊണ്ട് അത് ട്രാൻസ്പോർട്ട് ചെയ്തു ഷെൽട്ടർ സെറ്റ് ചെയ്യുന്നതിൽ കരകൌശല വിദഗ്ധർ ഗുണഭോക്താക്കളെ സഹായിച്ചു ഗുണനിലവാരം നിരീക്ഷിക്കുകയുംസാങ്കേതിക സഹായം നൽകുകയും ചെയ്തു പക്ഷേ അധിക കിറ്റുകളും കുറച്ചു ദിവസം കൊണ്ട് തന്നെ സ്ഥാപിക്കാൻ കഴിഞ്ഞു അതായത് രണ്ടു ദിവസം മൂന്നു ദിവസം അതിനാൽ ഇത് വളരെ പെട്ടെന്നുള്ള വികസന പ്രക്രിയ ആണ് എന്നാൽ ഏത് ദുരന്തത്തിലുംപേർസണലൈസേഷൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പേർസണലൈസേഷൻ എന്നാൽ സാംസ്കാരിക പോരായ്മകളോടും സാമ്പത്തിക സാധ്യതകളോടും അവസരങ്ങളോടും ഉള്ള സ്വാഭാവിക പ്രതികരണമാണ് അതിനാൽ ആളുകൾ അവരുടെ വീടുകൾ ടിമ്പർ ഓഫ് കട്ട്സ് അതായതു ടിമ്പർ ഷിംഗിളുകൾ കൊണ്ട് നവീകരിച്ചു വികസിപ്പിക്കാൻ തുടങ്ങി ഷിംഗിളുകൾ കൊണ്ട് കവർ ചെയ്തു കൂടുതൽ സ്ഥിരമായ ലുക്ക് നൽകാൻ ശ്രമിക്കുന്നു വീണ്ടെടുക്കപ്പെട്ട മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭാഗിക നവീകരണമാണിത് അവർ വികസിപ്പിച്ചെടുത്തു അല്ലെങ്കിൽ പഴയ സൈറ്റുകളിൽ നിന്നോ അവരുടെ സാധ്യതകളുപയോഗിച്ചോ അവർക്ക് അത് സംഭരിക്കാൻ കഴിയും അവർ അവരുടെ ഷെൽട്ടറുകളിൽ ചില മോഡിഫിക്കേഷനുകൾ ചെയ്തു ഒരുമാസത്തിനുള്ളിൽ 53 വീട്ടുടമസ്ഥരും അവരുടെ ഷെൽട്ടറുകൾ നവീകരിക്കാൻ തുടങ്ങി ഇത് വളരെ പെട്ടെന്നുള്ളതാണ് ഒരുമാസത്തിനുള്ളിൽ ഇത്തരത്തിൽ മാറ്റം വന്നത് 53 ആണ് മുൻഗണനകൾ കൊടുത്തത് ആദ്യം വാതിലുകൾക്കും രണ്ടാമത് ചുമരുകൾക്കും മൂന്നാമത് ജനലുകൾക്കും ആണ് അതായത് വെന്റിലേഷൻ ആസ്പെക്ട് ചില ഗുണഭോക്താക്കൾ ചുമരുകൾക്കും വാതിലുകൾക്കും ജനലുകൾക്കും വേണ്ട ടിമ്പറുകൾ അവർ തന്നെ വാങ്ങി മുഴുവൻ സെറ്റുകളും ടിമ്പറിൽ ആണ് നമ്മൾ കണ്ടത് തുടക്കത്തിൽ ചുമരുകളുടെ വരിയിൽ നൽകിയിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റിങ് ഉപയോഗിച്ചു അതിനാൽ അവ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് ഭാഗിക കവറിങ് ചെയ്തു മറ്റുള്ളവർ പ്ലാസ്റ്റിക് ഷീറ്റിങ് വിൽക്കുകയും അഡോബ് ചുമരുകൾ നിർമ്മിക്കാൻ പ്രാദേശിക കരകൌശല വിദഗ്ദ്ധരെ നിയമിക്കുകയും ചെയ്തു അവർ അത് തിരികെ നൽകിഅവർ അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റപ്പോൾ അവർക്ക് പണം ലഭിക്കുകയും അതിന്റെ കൂടെ കുറച്ചുകൂടി പണം നൽകി അഡോബ് ചുമരുകൾ നിർമ്മിക്കുകയും ചെയ്തു ഈ പ്രക്രിയകൾ മുഴുവൻ ഇതെല്ലാം ഒരു ഇൻഗ്രിമെന്റൽപ്രക്രിയ ആണ് കാണിക്കുന്നത്ഓരോ വീട്ടുകാരെയും ആശ്രയിച്ചിരിക്കും ഇത് അതായത് അവരുടെ സാമ്പത്തിക സ്ഥിതി അവരുടെ ആവശ്യങ്ങളോട് അവർ പ്രതികരിക്കുന്ന രീതി പിന്നെ അവരുടെ ആവശ്യങ്ങൾ എന്നിവയെ ആശ്രയിച്ച് ചിലർ ഷെൽട്ടർ കിറ്റിൽ നൽകിയ ഉപകരണങ്ങളുപയോഗിച്ച് ജോലിക്ക് പണം നൽകി ചിലർ ഷെൽട്ടറുകൾ കംപ്ലീറ്റ് complete ആയപ്പോൾ വീട്ടുപകരണങ്ങൾ വാങ്ങിക്കാൻ ഈ ഉപകരണങ്ങൾ വിറ്റു അങ്ങനെ ഉപകരണങ്ങൾ വിറ്റപ്പോൾ അവർ കൂടുതൽ വീട്ടുപകരണങ്ങളുംഫിറ്റിങ്ങുകളുംവാങ്ങി ഇതോടെ ഈ പ്രക്രിയ സ്കേൽ അപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് സർക്കാർ മനസ്സിലാക്കി അങ്ങനെ അവർ 18 സ്ക്വയർ മീറ്ററിൽനിന്നും 20 സ്ക്വയർ മീറ്റർആയി വികസിപ്പിച്ചെടുത്തു പിന്നെ അഡോബിന്റെയും ടിമ്പറിന്റെയും സ്ഥിരമായ ചുമരും ഏകദേശം 40000 ചിലവ് കുറഞ്ഞ വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതിയും അവർ ആരംഭിച്ചു അങ്ങനെ UNHCR ന്റെയും MoSSP യുടെയും പങ്കാളിത്തത്തിൽ 2009 മാർച്ച് അവസാനത്തോടെ ഏകദേശം 16240 വീടുകൾ നിർമ്മിച്ചു ഇത് ഒരു തരത്തിൽ ഉള്ള വലിയ പദ്ധതി ആണ് ജപ്പാനീസ് ഏജൻസികളുംവ്യത്യസ്ത NGO കളും ഇതിന് വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു പക്ഷേ നിങ്ങൾ അതിന്റെ തിയററ്റിക്കൽ ധാരണയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസിഷൻ ഷെൽട്ടർ ഒരു നാമം അല്ല അത് ഒരു ക്രിയ ആണ് ഒരു പ്രക്രിയ ആണ് അതിനാൽ ക്രിസ്റ്റഫർ അലക്സാണ്ടർ വിവരിക്കുന്നത് പോലെ ഒരു വീടെന്നത് ക്രമേണ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ആക്ടിവിറ്റി ആണ്അതിനകത്തും അതിനു ചുറ്റും സംഭവിക്കുന്ന ജീവിതത്തിന്റെ ഫലമായി അവർക്ക് താങ്ങാൻ കഴിയുന്നത് മാത്രം ചിലവഴിക്കുന്ന ആളുകൾ ഉള്ള സ്ഥലം അതിനാൽ നിങ്ങളുടെ സ്പേസസ് പേർസണലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് നിങ്ങളിൽ നിന്ന് ആരംഭിക്കുന്നു നിങ്ങൾ അതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും ആളുകൾ അതിനനുസരിച്ച് വീട്ടിനുള്ളിലും അതിനുചുറ്റും ചില ഭേദഗതികൾ വരുത്താൻ തുടങ്ങുകയും ചെയ്യുന്നു സി ടർണർJohn F C Turner മെക്സിക്കോ ഹൌസിങ്ങിൽ ആളുകൾ നടത്തിയ പ്രവർത്തനത്തെ കുറിച്ചു നടത്തിയ സമാനമായ നിരീക്ഷണങ്ങൾ ആണിത് അവിടെയാണ് അദ്ദേഹം ഈ സമീപനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ യൂസ് വാല്യൂ വിനാണ് മാർക്കറ്റ് വാല്യൂ വിനെക്കാൾ പ്രാധാന്യമുള്ളത് എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഉപഭോക്താവിന് വീട് എന്താണ് എന്നതിനേക്കാൾ പ്രധാനമാണ് അവർക്ക് വീട് എന്താണ് നൽകുന്നത് എന്നത് അതിനാൽ ഇത് ഒരു പ്രോഡക്റ്റ് അല്ലമനുഷ്യൻ ഒരു ഹൌസിനെ ഹോം ആക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ആണിത് യൂസ് വാല്യൂ ആണ് മാർക്കറ്റ് വാല്യൂ market value വിനെക്കാൾ പ്രധാനം എന്ന് കാണാൻ അദ്ദേഹം ശ്രമിച്ചു അത്പോലെ തന്നെ ജോൺ ഹബ്രാകെൻ ഡിസിഷൻ മേക്കിങ്ങിന്റെ 3 തലങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഒരെണ്ണം ടിഷ്യൂ വും സപ്പോർട്ട് ഉം ആണ് അതായത് ബേസ് ബിൽഡിംഗ് ടിഷ്യൂ എന്നത് അർബൻ ഫാബ്രിക് നെ സൂചിപ്പിക്കുന്നു സപ്പോർട്ട് എന്നത് ബേസ് ബിൽഡിംഗ് ആണ് ഫിറ്റ്ഔട്ട് എന്നത് ഇൻഫിൽ നെ യാണ് സൂചിപ്പിക്കുന്നത് ആളുകൾ അവരുടെ വീടുകളിൽ എന്ത് ചെയ്താലും ടിഷ്യൂ അതേപടി തുടരുന്നു കാരണം അതിന്റെ ഉള്ളടക്കം വലുതാണ് സപ്പോർട്ട് സമയത്തിന് അനുസരിച്ചു മാറുംഇൻഫിൽ റെഗുലർ ആയി മാറും അതിനാൽ ഇത് ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കും സിസ്റ്റം ഓഫ് സബ്ഡിവിഷൻ ഉപയോക്താക്കൾക്ക് അവർക്ക് റെലെവന്റ് ആയ ലെവലുമായി ഇന്റർഫേസ് ചെയ്യാൻ അനുവദിക്കുന്നു എങ്ങനെയാണ് ഓരോ കമ്മ്യൂണിറ്റിയും ഈ വ്യത്യസ്തമായ 3 വിഭാഗങ്ങളോട് പ്രതികരിക്കുന്നത് ഉപഭോക്താവ് അഥവാ വീട്ടുകാർ ഇൻഫിൽ ലെവലിൽ പ്രവർത്തിക്കുന്നു ഹൌസിങ് കോർപ്പറേഷൻ അഥവാ ഡെവലപ്പ്മെന്റ് ഏജൻസി സപ്പോർട്ട് ലെവലിലും മുനിസിപാലിറ്റി ടിഷ്യൂ ലെവലിലും ജോലി ചെയ്യുന്നു അതേപോലെ കെട്ടിടങ്ങൾ പ്രധാനമായും 6 ടൈം ബൌണ്ടഡ് ലെയറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് സ്പേസ് ടൈം പ്രതിഭാസമാണ്ഇയാൻ ബെന്റ്ലി യും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു ഒരെണ്ണം സൈറ്റ്ആണ് അത് സാദാരണ മാറാറില്ല ചില കെട്ടിടങ്ങൾ ഗതാഗതയോഗ്യമാണെങ്കിലും ഘടനയും അടിത്തറയുംലോഡ് താങ്ങുന്ന ഘടകവും മാറ്റുന്നത് ചിലവേറിയ കാര്യമാണ് കാരണം ഘടനയിൽഒരിക്കൽ നിങ്ങൾ അടിത്തറ സജ്ജമാക്കിയാൽ പിന്നെ അത് മാറ്റുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചുമരുകൾ തകർക്കാം നിങ്ങൾക്ക് പ്രീഫാബ്ചുമരുകൾപുറത്തേക്ക് എടുക്കാം അതിനാൽ ജനങ്ങൾ സാദാരണയായി അത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു സ്കിൻ അതായത് എക്സ്റ്റീരിയർ സർഫസ് 20 വർഷത്തിനുള്ളിൽ മാറിയേക്കാം അതേസമയം സർവീസുകൾഒരു കെട്ടിടത്തിന്റെ പ്രവർത്തന ക്ഷമത ഇലക്ട്രിക് പ്ലമ്പിങ് എന്നിവ ഇടയ്ക്കിടെ ക്ഷയിക്കുന്നു അതിനാൽ ആനുകാലിക പരിപാലനം ആവശ്യമാണ് ചുമരുകൾ സീലിംഗുകൾ നിലങ്ങൾ വാതിലുകൾ ഇവയെല്ലാം ഓരോ മൂന്ന് വർഷത്തിലും പലപ്പോഴും മാറ്റാം പക്ഷേ സ്പേസ് പ്ലാൻ ഇന്റീരിയർ ലേ ഔട്ട് എന്നിവ 30 വർഷത്തേക്ക് മാറ്റമില്ലാതെ തുടരുന്നു പിന്നെ സാധനങ്ങൾ ഫർണിച്ചറിന്റെ ഇടയിൽ ഉള്ള ഘടകങ്ങൾവീട്ടുപകരണങ്ങൾ എന്നിവ പ്രതിമാസം അല്ലെങ്കിൽ ദിവസേന പോലും മാറിയേക്കാം സ്പേസ് ടൈമിന്റെ വ്യത്യസ്ത ലെയറുകളെ കുറിച്ചും ഇയാൻ ബെന്റ്ലി സംസാരിക്കുന്നു അണ്ടർലൈയിങ്ങ് ടോപ്പോഗ്രഫി നാച്ചുറൽ സിസ്റ്റം പിന്നെ പബ്ലിക് ലിങ്കേജ് സിസ്റ്റം പ്ലോട്ടുകൾ കെട്ടിടങ്ങൾകമ്പോണെന്റുകൾ എന്നിവ വ്യത്യസ്ത ടൈം ആസ്പെക്റ്റുകളിൽ മാറുന്നു ഒരിക്കൽ ഒരു കിറ്റ്വികസിപ്പിച്ചെടുത്താൽഒരു ഓണർ ഡ്രിവൺ പ്രക്രിയയിൽ സ്റ്റാൻഡേർഡ് സ്ട്രക്ച്ചർ സ്വീകര്യമാണ് ഇത്തരത്തിൽ ഉള്ള ഇടപെടൽ താത്കാലിക ഷെൽട്ടറുകളെ നവീകരിക്കാവുന്നതാണ് സ്റ്റാൻഡേർഡൈസ്ഡ് കിറ്റുകളുടെ ബഡ്ജറ്റിംഗ്സംഭരണംവിതരണം താരതമ്യേന ചെറുതുംലളിതവുമായ പ്രവർത്തനം ആണ് ഇടപെടൽ സ്ഥിരമായ നിർമ്മാണമാണെങ്കിൽഅന്തിമ ഉപയോക്താക്കളുമായി സഹകരിച്ച് ഡിസൈൻ ചെയ്ത സ്റ്റാൻഡേർഡൈസ്ഡ് സ്ട്രക്ച്ചറൽ ഓപ്ഷനുകൾ സ്റ്റാൻഡേർഡ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആയി വികസിപ്പിക്കാം കീ സ്റ്റേജ് ഗ്രാന്റ് ഡിസ്ബഴ്സമെന്റുകൾ സെറ്റ് ആക്കുകയും ചെയ്യാം കാരണം ഓരോ ഘട്ടത്തിലും നമ്മൾ ഫണ്ടിങ് വിഹിതവും നോക്കേണ്ടതുണ്ട് അതേ സമയം സ്കിൻ ന്റെയും സ്പേസ് പ്ലാനിന്റെയും ഡിസൈനിൽ ഫ്ലെക്സിബിലിറ്റി അനുവദിക്കും അവിടെ ഒരു ബേസിക് കോഡ് ഡ്വെല്ലിംഗ് കോൺസെപ്റ്റ് ഉണ്ട് അതിനുള്ളിലെ വ്യത്യസ്ത ഓപ്ഷനുകൾ നമ്മൾ എങ്ങനെ ക്രമീകരിക്കുന്നു ഇത് പൂർണമായ ബെസ്പോക്ക് സമീപനത്തെക്കാൾ പ്രൊഫഷണൽ റിസോഴ്സസിലും സമയത്തിലും ലൈറ്റർ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പോലുള്ള പാവപ്പെട്ട സമൂഹവുമായി ഇടപെടുമ്പോൾഅവരുടെ ഉപജീവന ചട്ടക്കൂടിലേക്ക് കൂടി നോക്കേണ്ടതുണ്ട് ഇത് വെറും ഷെൽട്ടർ മാത്രമല്ല ഇവിടെയാണ് ASAL ഫ്രെയിംവർക്ക്സുസ്ഥിര ഉപജീവന ഫ്രെയിംവർക്ക് വളരെ ഉചിതവും പരിഗണിക്കാവുന്നതുമാണ് കാരണം എങ്ങനെ ഒരു ആൾ ഒരു കമ്മ്യൂണിറ്റി അഥവാ ഒരു സോഷ്യൽ ഗ്രൂപ്പ്ചില റിസോഴ്സസിലേക്ക് അക്സസ് ചെയ്യാനുള്ള അവരുടെ കഴിവ് എങ്ങനെ ആയിരിക്കും അത് സാമൂഹികമോ സാമ്പത്തികമോമാനുഷികമോസ്വഭാവികമോ രാഷ്ട്രീയമോ എന്തുമാകട്ടെ റിസോഴ്സസ് എന്ത് തന്നെയായാലുംഅവർക്ക് എങ്ങനെ റിസോഴ്സസ് ആക്സസ്സ് ചെയ്യാൻ കഴിയും ഒരു ഭാഗത്തു അവർ ഇതിനകം തന്നെ ദുർബലതയുടെ സന്ദർഭത്തിന് വിധേയരാണ് അവർ അങ്ങനെയൊരു സന്ദർഭത്തിലാണ് അത് അവരുടെ കഴിവുകളിലേക്കുള്ള പ്രവേശനത്തിൽ ചില സ്വാധീനം ചെലുത്തും അതായത് റിസോഴ്സസിലേക്ക് ആക്സസ്സ്ചെയ്യാനുള്ള കഴിവുകൾ അവിടെയാണ് നമ്മൾ ഈ കഴിവുകളെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെ അവർ ഈ കഴിവുകൾ ഉപയോഗിച്ച് ഘടനകളെയും പ്രക്രിയകളെയും പരിവർത്തനം ചെയ്യുന്നു അവ നിയന്ത്രണ ചട്ടക്കൂടിന്റെ രൂപത്തിലായാലും പൊതു സ്വകാര്യ മേഖലയുടെ രൂപത്തിലായാലും എന്നിട്ട് എങ്ങനെ അവർ അവരുടേതായ ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുന്നു ഇവിടെയാണ് നമ്മൾ കൂടുതൽ വരുമാന വർദ്ധനവ് ക്ഷേമം ദുർബലത കുറയ്ക്കൽ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കൽ എന്നിവയെ കുറിച്ച് സംസാരിക്കുന്നത് അതുപോലെ ഒരു വ്യക്തിക്കോ ഒരു ഗ്രൂപ്പിനോ അഥവാ ഒരു സമൂഹത്തിനോ യഥാർത്ഥത്തിൽ കൂടെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മുഴുവൻ സെറ്റ് ഫ്രെയിംവർക്ക് അവിടെ ഉണ്ട് നമ്മൾ ട്രാൻസിഷണൽ ഷെൽട്ടറിലേക്ക് നോക്കുമ്പോഴും അതുപോലെ തന്നെ അവർ യഥാർത്ഥത്തിൽ ഓണർ ഡ്രിവൺ പ്രക്രിയയിലേക്ക് നോക്കുമ്പോഴുംനിങ്ങൾ മുഴുവൻ റിസോഴ്സസും അവരുടെ ദുർബലതയുടെ പശ്ചാത്തലവും മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് പ്രാപ്തമാക്കുന്ന സമീപനം എങ്ങനെ നമുക്ക് ഈ പ്രക്രിയ പ്രവർത്തനക്ഷമമാക്കാം ഒന്ന് ധനകാര്യം ആണ് കാരണം ഈ സമീപനം പരിമിതമായ ധനകാര്യം വീട് നിർമ്മാണത്തിന് സൃഷ്ടിച്ച തടസ്സം തിരിച്ചറിയുന്നതാണ് അതിനാൽ ഞങ്ങൾ പണമൊഴുക്കിനെക്കുറിച്ച് സംസാരിച്ചു ഘട്ടം തിരിച്ചു എങ്ങനെ സാമ്പത്തികം വിതരണം ചെയ്യാം എന്നതിനെക്കുറിച്ചും സംസാരിച്ചു ഭൂവുടമസ്ഥതഭൂമിയിലേക്കുള്ള പ്രവേശനം കുടിശ്ശികയുടെ സുരക്ഷ തുടങ്ങിയ എല്ലാവർക്കും മതിയായ ഷെൽട്ടർ ഒരുക്കുന്നതിനുള്ള മുൻവ്യവസ്ഥകളെ കുറിച്ചാണ് ഞങ്ങൾ സംസാരിക്കുന്നത് കൂടാതെ മെറ്റീരിയലുകളുംഅധ്വാനവും കാരണം മെറ്റീരിയലുകൾക്ക് വലിയ ചിലവുണ്ട് മാത്രമല്ല അനുചിതമായ നിർമ്മാണ ചട്ടങ്ങൾ വീട് നിർമ്മാണത്തിന് തിരിച്ചടിയാകും അതിനാൽ നിയമപരമായ ചട്ടക്കൂട്അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗവൺമെന്റിന് നിയമപരവും നിയന്ത്രണപരവുമായ ചട്ടക്കൂട് പുനരവലോകനം ചെയ്തു കൊണ്ട് വീട് നിർമ്മാണത്തിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാനാകും എന്ന് നിയന്ത്രണ പ്രക്രിയയിൽ നമുക്ക് എങ്ങനെ ഇൻഡിജീനസ് മെറ്റീരിയലുകൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും എല്ലാ ബിൽഡിംഗ് കോഴ്സിനും അത് ഒരു പ്രധാന വെല്ലുവിളിയാണ് ജനങ്ങളും ഭരണവുംഎങ്ങനെ നമുക്ക് ആളുകളെ വ്യക്തിഗതമായും കൂട്ടായും ഇതിൽ ഉൾപ്പെടുത്താം ദേശീയ നയരൂപീകരണം ആസൂത്രണവും നടപ്പാക്കലുംഭവന പദ്ധതികളുടെ നിരീക്ഷണം സേവനങ്ങൾ കൈകാര്യം ചെയ്യൽ വിപുലമായ രാഷ്ട്രീയ പ്രക്രിയകൾ ഈ മുഴുവൻ ചട്ടക്കൂടും നമുക്കുണ്ട്ട്രാൻസിഷണൽ ആണെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ഓണർ ഡ്രിവൺ പ്രക്രിയയെ പ്രാപ്തമാക്കുന്നു പക്ഷെ എങ്ങനെ നമുക്ക് സാധിക്കും എന്തൊക്കെയാണ് വ്യത്യസ്ത വഴികൾ അവരെ എങ്ങനെ ഇടപഴകിക്കാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പിന്തുണാ സംവിധാനം നൽകാൻ കഴിയുമെങ്കിൽ എങ്ങനെ ഇതൊക്കെ സാധിക്കും അതിനാൽ ഇത് ക്രമേണ അവരുടെ ജീവിതത്തിൽ ഒരു പ്രധാന ട്രാൻസിഷനിലേക്ക്നയിച്ചേക്കാം കാരണം അവർക്ക് സ്വയം വിശ്വസനീയരാകാൻ കഴിയും അവർക്ക് അവരുടേതായ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ സാധിക്കും അവർക്ക് ആ സിസ്റ്റത്തെ ആശ്രയിക്കാം അതിനൊപ്പം പുരോഗമിക്കുന്നതിന് അവർക്ക് ഒരു ചെറിയ പിന്തുണാ സംവിധാനം നമ്മൾ നൽകേണ്ടതുണ്ട് കെനിയയിലെ ട്രാൻസിഷണൽ ഹൌസിംഗിനെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ആശയം ലഭിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു